ഇനി നമുക്ക് അതിലേക്ക് വരാം അതിനാൽ കാര്യങ്ങൾ വളരെ നിർണ്ണായകമായി നിലനിർത്താൻ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ 3 സെഗ്മെന്റുകൾ വെറും 3 സെഗ്മെന്റുകൾ മാത്രമേ എടുക്കൂ 3 സെഗ്മെന്റുകൾക്കായി ഞങ്ങൾ സമവാക്യങ്ങളുടെ സിസ്റ്റം നിർമ്മിക്കും ഈ 3 സെഗ്മെന്റുകൾക്കായി നമുക്ക് അവയെ എന്ത് വിളിക്കാം ഇതാണ് എലമെന്റ് 1 എലമെന്റ് 2 എലമെന്റ് 3 ഇതാണ് നോഡ് 1 നോഡ് 2 നോഡ് 3 നോഡ് 4 എന്നിവ അപ്പോൾ എന്റെ ആകൃതിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതിനായി നിങ്ങൾക്ക് എത്ര ആകാര പ്രവർത്തനങ്ങൾ ഉണ്ട് 6 ആകൃതി പ്രവർത്തനങ്ങൾ ശരിയാണ് അപ്പോൾ അവർ എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ ഇത് എന്റെ ഞാൻ തുല്യനാണ് അതിനാൽ നമ്മൾ ഇതുപോലെ ഇട്ടാൽ ഇതാണ് ശരി i e ഒപ്പം അതിനാൽ ആകെ 6 ആകൃതി ഫംഗ്ഷനുകൾ ശരിയാണ് അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ഫീൽഡ് എഴുതും ഈ അടിസ്ഥാന ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ x ന്റെ ഫീൽഡ് u എഴുതുന്നു അതിനാൽ ഇതൊരു സംഗ്രഹമാണ് ഈ സമയം സംഗ്രഹം ശരിയാണെന്ന് വ്യക്തമായി തുറക്കും അതിനാൽ ആദ്യത്തെ അജ്ഞാതമായത് നമുക്ക് അജ്ഞാതവും തുടർന്ന് ആകൃതിയുടെ പ്രവർത്തനവും എഴുതാം അതിനാൽ ആദ്യം അറിയപ്പെടാത്ത നമുക്ക് ഈ സംഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാം അതിനാൽ ഗുണിച്ചാൽ വിദ്യാർഥി എൻ അടുത്തത് U ആകും മുകളിൽ 1 ഉം താഴെ 2 ഉം ആയിരിക്കും അടുത്തതായി ഞാൻ ഇപ്പോൾ പോകുന്നു നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എഴുതാം കൂടാതെ ഇതെല്ലാം x ന്റെ പ്രവർത്തനമാണ് ഇത് എങ്ങനെ എഴുതാം ഇപ്പോൾ ഈ വേരിയബിളുകളിൽ ചില വേരിയബിളുകൾ ഒരേ ശരിയാണ് ഈ അജ്ഞാതമായവയിൽ ചിലത് അജ്ഞാതമാണ് അതിനാൽ ഇവ അജ്ഞാതങ്ങളാണ് ഈ അജ്ഞാതരുടെ ശരിയാണ് ചില അജ്ഞാതർ ഒന്നുതന്നെയാണ് അവ ഏതാണ് വിദ്യാർത്ഥി U 2 1 പിന്നെ എന്തുണ്ട് വിദ്യാർത്ഥി ഉണ്ടോ അതിനാൽ പൊതുവായ വേരിയബിളുകൾ അവ ഒന്നുതന്നെയാണെന്നും അവ യഥാക്രമം തുല്യമാണെന്നുംഒപ്പം ശരിയാണെന്നും സൂചിപ്പിക്കാം അതിനാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഇത് എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് വീണ്ടും എഴുതാനുള്ള ഒരു മാർഗം മാത്രമാണ് ഇത് പ്രാദേശികത്തിൽ നിന്ന് ആഗോളതലത്തിലേക്ക് മാറുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇത് വീണ്ടും എഴുതണമെങ്കിൽ എനിക്ക് ഇതുപോലെ എഴുതാം എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ അതെ ഇത് യഥാർത്ഥത്തിൽ അതെ പ്ലസ് ശരിയായിരിക്കണം അതിനാൽ ഇത് ആദ്യത്തേത് പ്രാദേശികവും മറ്റൊന്ന് ആഗോളവുമാണ് ഇത് ആയിരിക്കണം ലോക്കൽ ഗ്ലോബൽ അജ്ഞാത സംഖ്യകൾ ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുകൾ ഇവിടെയുണ്ട് ഈ ഗ്രീൻ ബ്രാക്കറ്റിൽ എനിക്കുണ്ട് എനിക്ക് അവ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പച്ചയിൽ ഹൈലൈറ്റ് ചെയ്ത ഫംഗ്ഷനുകൾ ഇവിടെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം അതിനാൽ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളിൽ ചിലർ കാണുന്നു അതിനാൽ നിങ്ങൾ അത് ഇവിടെ കുറച്ചുകൂടി വലുതാക്കി 1 2 3 ഉം 4 ഉം വരയ്ക്കുന്നു അതിനാൽ അത് തുറക്കുന്ന ആദ്യത്തേത് ഈ ആദ്യ ടേം ഇവിടെ ഇടത്തോട്ടോ വലത്തോട്ടോ ആണ് വിദ്യാർത്ഥി ഇടത് ഇടത് വലത് അതിനാൽ ഈ ഘട്ടത്തിൽ ഇത് ഒരു പോലെ കാണപ്പെടുന്നു ഇത് എന്റെതാണ് ശരി സമ്മതിക്കുന്നു പച്ച ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ടേമിനെ സംബന്ധിച്ചെന്ത് അത് എങ്ങനെയിരിക്കും ഇത് ഒരു തുകയാണ് വിദ്യാർത്ഥി 2 രണ്ട് ഫംഗ്ഷനുകൾ രണ്ട് ത്രികോണങ്ങൾ ഒന്ന് വലത്തോട്ട് തുറക്കുന്ന ഒന്ന് ഇടത്തേക്ക് തുറക്കുന്നു അതിനാൽ അത് ശരിയാണെന്ന് തോന്നുന്നു ഞാൻ ഇതിനെ വിളിക്കാൻ പോകുന്നു നമുക്ക് ഇതിനെ ടി എന്ന് വിളിക്കാം നമുക്ക് എ വിളിക്കാം ബ്രാക്കറ്റിലെ അടുത്ത ടേം വീണ്ടും ഇത് പോലെ തന്നെ കാണപ്പെടും അല്ലാതെ ഇത് 1 നോഡിലേക്ക് മാറ്റും ഇത് എന്റെ അടുത്തേക്ക് പോകുന്നു ഞാൻ ഇതിനെ വിളിക്കാൻ പോകുന്നു ഒടുവിൽ ഇവിടെ നാലാമത്തേത് എന്റെ പതിവായിരിക്കും അത് ശരിയായ മൂന്നാം സെഗ്മെന്റ് തുറക്കുന്നതാണ് അപ്പോൾ ഈ ആൾ ശരി അതിനാൽ മൊത്തത്തിലുള്ള പ്രശ്നത്തിൽ എനിക്ക് ആഗോളതലത്തിൽ എത്ര അജ്ഞാതർ ഉണ്ടായിരുന്നു അതിനാൽ ഞാൻ ഈ കോമ്പിനേഷൻ ചെയ്തതിന്റെ കാരണം എനിക്ക് 6 ഷേപ്പ് ഫംഗ്ഷനുകൾ ഉണ്ടെന്ന് ഓർത്തിരിക്കുമ്പോൾ എല്ലാ 6 ഷേപ്പ് ഫംഗ്ഷനുകളും ഉപയോഗിച്ച് എന്റെ ടെസ്റ്റിംഗ് നടത്തിയാൽ എനിക്ക് എന്ത് ലഭിക്കും അവയിൽ ഓരോന്നിനും ഓരോന്നിനും 6 സമവാക്യങ്ങൾ ലഭിക്കും എന്നാൽ എത്ര വേരിയബിളുകൾ വിദ്യാർത്ഥി 4 4 വേരിയബിളുകൾ ശരിയായി മാറും നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഈ രണ്ട് സമവാക്യങ്ങളാണെന്ന് ഇത് മാറും വിദ്യാർത്ഥി അനാവശ്യം മറ്റ് ചില സമവാക്യങ്ങളുടെ രേഖീയ സംയോജനത്തിലൂടെ അവ രൂപം കൊള്ളുന്നു അതിനാൽ അത് ചെയ്യാതിരിക്കാൻ ഞാൻ ചെയ്തത് ഞാൻ തന്നെയാണ് ചെയ്തത് ഉദാഹരണത്തിന് പറയുക ശരി എന്ന് പറയുക അതിനാൽ ഇവിടെ മുകളിലുള്ളവ ഇവയാണ് എന്റെ ആകൃതി ഫംഗ്ഷനുകൾ ഞാൻ ഇവിടെ വരച്ച ഈ ആൺകുട്ടികൾ ഇവയാണ് ഞാൻ എന്റെ ടെസ്റ്റിംഗ് ഫംഗ്ഷനുകളിലേക്കോ ഭാരം ഫംഗ്ഷനുകളിലേക്കോ മാറ്റുന്നത് ഇത് ഇപ്പോഴും ഗലേർകിന്റെ രീതിയാണ് കാരണം ആകൃതിയുടെ പ്രവർത്തനങ്ങളും ഭാര പ്രവർത്തനങ്ങളും ഒന്നുതന്നെയാണ് ഒട്ടുമിക്ക പുസ്തകങ്ങളുടേയും ഉള്ളതിനെ അപേക്ഷിച്ച് ഒരു കുറുക്കുവഴിയായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് മിക്ക പുസ്തകങ്ങളും നിങ്ങളെ 6 സമവാക്യങ്ങളിലൂടെയും 4 വേരിയബിളുകളിലൂടെയും കടന്നുപോകാൻ പ്രേരിപ്പിക്കും തുടർന്ന് ഇല്ലാതാക്കി 4 ലേക്ക് തിരികെ വരാം ഞങ്ങൾ ചെയ്യുന്നത് 4 ൽ നേരിട്ട് എത്തുന്നു കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും അതിനാൽ ഇവയാണ് 4 ടെസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ 4 ടെസ്റ്റിംഗ് ഫംഗ്ഷനുകൾ ഞാൻ എന്റെ സമവാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ എനിക്ക് 4 സമവാക്യങ്ങൾ 4 വേരിയബിളുകൾ ലഭിക്കും അതിനാൽ പൊതുവെ ഇതൊരു തന്ത്രമാണ് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് എങ്ങനെ സംയോജിപ്പിച്ചുവെന്ന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഒരു നോഡ് പങ്കിടുന്നിടത്തെല്ലാം ഞാൻ ഷേപ്പ് ഫംഗ്ഷൻ സംയോജിപ്പിച്ചു അതാണ് ഞാൻ ചെയ്തത് അവസാന പോയിന്റുകൾ പങ്കിടാൻ കഴിഞ്ഞില്ല അതിനാൽ അവ ശരിയെന്ന നിലയിൽ തുടരുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായി പോകാം ഈ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഓരോന്നിനെയും സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പരിശോധന നടത്താം അതിനാൽ നമുക്ക് ഇവിടെ നമ്മുടെ സമവാക്യത്തിലേക്ക് തിരിഞ്ഞുനോക്കാം അതിനാൽ ഞങ്ങൾ ഇത് ഇവിടെ എഴുതാം അതിനാൽ ആദ്യ പദം മൈനസ് ആണ് ഇതാണ് മൈനസ് പ്ലസ് എന്നത് അവസാന പോയിന്റ് ടേം റൈറ്റ് എന്നതിന് തുല്യമാണ് അതിനാൽ ഇത് മൈനസിന് തുല്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ പദം വലതുവശത്തേക്ക് മാറ്റിയത് കാരണം ഞാൻ ഉരുത്തിരിഞ്ഞ എന്റെ അതിർത്തി വ്യവസ്ഥകൾ ഇവിടെയാണ് ഞാൻ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് തീർച്ചയായും അറിയാം ഇപ്പോൾ ഈ അവസാനം അങ്ങനെ ചെയ്യാതെ ഞാൻ എടുക്കുന്ന ഓരോ W നും ഇത് ചെയ്യണം എനിക്ക് ഈ എൻഡ് പോയിന്റ് സംഭാവന ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് നോക്കി അവസാന സമവാക്യത്തിൽ എല്ലാ n പോയിന്റുകളും ദൃശ്യമാകുമെന്ന് പറയാമോ നിങ്ങൾ കണക്കുകൂട്ടാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ അതിലേക്ക് വരും അത് ശരിയാകും അതിനാൽ നമുക്ക് ഇപ്പോൾ പരീക്ഷണം നടത്താം അതിനാൽ അതിന് തുല്യമായ ആദ്യത്തെ വെയ്റ്റിംഗ് ഫംഗ്ഷൻ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു ഞങ്ങൾ ഇത് ഈ രൂപത്തിൽ എഴുതുന്നത് തുടരും അതാണ് ഞാൻ ഇത് എഴുതുന്നത് കാരണം ഇത് വളരെ ചെറിയ കോംപാക്റ്റ് നൊട്ടേഷനിൽ ഇത് എന്താണ് എന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ശരിയല്ല ഞങ്ങൾ അതിനെ വിളിക്കുന്നു കൂടാതെ അതിനാൽ നമുക്ക് എന്ത് ലഭിക്കും ഏത് ഷോർട്ട്ഹാൻഡ് നൊട്ടേഷൻ ശരിയാണോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും അതിനാൽ അതെ നമുക്കത് ഉണ്ടാക്കാം വിദ്യാർത്ഥി കാരണം അതെ ഉള്ളിലുണ്ടാകാം അതിനാൽ അത് ഉള്ളിൽ ആഗിരണം ചെയ്യപ്പെടും അതിനാൽ ഞങ്ങൾ അതിനെ ഇതുപോലെ ഉപേക്ഷിക്കും പൊതുവായ സ്ഥാനത്താണ് ആശ്രയിക്കുന്നത് വിദ്യാർത്ഥി ക്ഷമിക്കണം അതെ അല്ലെങ്കിൽ അവിടെ ഒരു ശൂന്യമായ ഇടം വിദ്യാർത്ഥി അപ്പോൾ നമ്മൾ പാടില്ല അപ്പോൾ ഞങ്ങൾ ശരിയാണ് നിങ്ങൾ ശരിയാണ് അതെ നല്ലത് എന്ന് ഉൾപ്പെടുത്തണം വിദ്യാർത്ഥി അവർ അതിൽ കൂടുതലായിരിക്കും എന്നത് സംതൃപ്തമായിരിക്കില്ല അതെ ഞാൻ അർത്ഥമാക്കുന്നത് എപ്സിലോൺ എല്ലായിടത്തും ഒന്നാണെങ്കിൽ അത് വളരെ താൽപ്പര്യമില്ലാത്ത ഒരു പ്രശ്നമാണ് അത് ഞാൻ ഉത്തേജിപ്പിക്കുന്ന സ്വതന്ത്ര ഇടമാണ് എന്നാൽ നമ്മുടെ കാര്യത്തിൽ അവയ്ക്കിടയിലുള്ള ഒരു വസ്തുവായിരിക്കാം അതിനുള്ളിൽ k ഇപ്സിലോൺ ആയിരിക്കും സഹയാത്രികൻ അതിനാൽ ഇത് x ന്റെ ഒരു ഫംഗ്ഷനാണ് അപ്പോൾ ആദ്യത്തെ സമവാക്യത്തിന് എന്ത് സംഭവിക്കും അതിനാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് സ്ഥിരമായി തുല്യം എന്താണ് മൈനസ് 1 വഴി വിദ്യാർത്ഥി നോഡുകൾ നോഡുകൾ സജ്ജീകരിച്ചിട്ടില്ല ഞാൻ അർത്ഥമാക്കുന്നത് അവയ്ക്ക് 1 ഇടം നൽകിയിട്ടില്ല എന്നാണ് ശരിയുടെ നിർവചനം അത് എന്തായിരുന്നുവെന്ന് ഓർക്കുക വിദ്യാർത്ഥി എക്സ് അതിനാൽ ഞാൻ ഈ സ്പെയ്സിംഗിനെ കുറച്ച് ഡെൽറ്റ റൈറ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ അതിനാൽ അപ്പോൾ തുല്യമായിരിക്കും വിദ്യാർത്ഥി ഡെൽറ്റയുടെ മൈനസ് 1 ശരി എന്ത് പറ്റി ഇതിലും ഈ ഇന്റഗ്രൽ അവസാനിച്ചു ഇപ്പോൾ ഏത് സെഗ്മെന്റ് അവിഭാജ്യമാണ് മറ്റെല്ലാ സെഗ്മെന്റുകളും 0 ആണ് കാരണം അതിന്റെ പുറത്ത് 0 ആണ് അതിനാൽ ആ ഡെറിവേറ്റീവുകളും പുറത്ത് നിർവചിക്കുന്നില്ല അതിനാൽ ഇതാണ് എന്റെ യു അതിനാൽ ഏത് പദങ്ങളിലാണ് ദൃശ്യമാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം നോക്കാം x ന്റെ U യുടെ ഈ ഫോം നോക്കുക നിങ്ങൾ ഇപ്പോൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കും അതിനാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓവർ എന്നതിന്റെ മൈനസ് ഇന്റഗ്രൽ എന്ന് എഴുതാം അതിനാൽ ഞാൻ ഈ പദത്തിന്റെയും ഈ പദത്തിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം കാരണം അവ രണ്ടും പൂജ്യമല്ല പിന്തുണയിൽ ഇല്ലാത്തതിനാൽ ഈ നിബന്ധനകൾ ദൃശ്യമാകില്ല സെഗ്മെന്റിന്റെ വീതിയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡെറിവേറ്റീവ് വിദ്യാർത്ഥി ഡെറിവേറ്റീവ് എനിക്ക് അവകാശമുണ്ട് വിദ്യാർത്ഥി ഓ ഇത് W ഡാഷ് ആണ് വിദ്യാർത്ഥി ഒരു കാര്യം വിദ്യാർത്ഥി നീളം ഒന്നായിരിക്കണമെന്നില്ല ഞാൻ കാണിച്ച അതേ ദൈർഘ്യം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നതായി കാണേണ്ടതില്ല പക്ഷേ അവ സമാനമാകണമെന്നില്ല അതിനാൽ ഡെൽറ്റയ്ക്ക് പകരം ഞാൻ ഡെൽറ്റ 1 എന്ന ചെറിയ വിശദാംശങ്ങൾ എഴുതും ഞാൻ എന്താണ് എഴുതുന്നത് എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് വിദ്യാർത്ഥി ഡെൽറ്റ മറ്റ് നിബന്ധനകൾ പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വരുന്നു അപ്പോൾ ഇത് എന്തായിരിക്കും വിദ്യാർത്ഥി ആണ് അതിനാൽ എന്റെ ഈ നൊട്ടേഷനിൽ അതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇത് കുറച്ച് ശ്രദ്ധയോടെ എഴുതേണ്ടതുണ്ടോ ഇത് മറ്റ് രണ്ട് പദങ്ങളുടെ ഉൽപ്പന്നമാണ് വിദ്യാർത്ഥി u1 വിദ്യാർത്ഥി 2 1 വിദ്യാർത്ഥി 2 1 2 dx ശരിയാക്കുക അവസാന പോയിന്റ് ടേം ശരി അതിനാൽ ഏത് പോയിന്റിലാണ് ഞാൻ ഇത് വിലയിരുത്തുന്നത് എന്ന അവസാന പോയിന്റുകളെക്കുറിച്ച് എനിക്ക് എന്ത് പറയാൻ കഴിയും എവിടെയാണ് ഞാൻ ഇത് ശരിയാണെന്ന് വിലയിരുത്തേണ്ടത് അതിനാൽ ആദ്യത്തേത് അതിനാൽ ഇത് നോഡ് 1 മൈനസ് നോഡ് 2 ൽ ആയിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത് അതിനാൽ നോഡ് 2 ലെ മൂല്യം എന്താണ് ഇത് നോഡ് 2 ലെ നോഡ് 2 ആണ് നോഡ് 2 ന്റെ മൂല്യം എന്താണ് എന്റേതാണ് വിദ്യാർത്ഥി 0 അപ്പോൾ എനിക്ക് മൈനസ് 0 ഉണ്ട് നോഡ് 1 ന്റെ മൂല്യം എന്താണ് നോഡ് 1 ലെ ട്രിക്ക് ചോദ്യത്തിന്റെ മൂല്യം എന്താണ് വിദ്യാർത്ഥി മൈനസ് 1 മൈനസ് ട്രിക്ക് ചോദ്യം വിദ്യാർത്ഥി സർ അവിടെ 0 ആയിരിക്കും പ്രത്യക്ഷപ്പെടാൻ പോകുന്നില്ല അതിനാൽ നിങ്ങൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ രൂപത്തിലേക്ക് നോക്കുകയാണ് ഡെറിവേറ്റീവ് സംസാരിക്കുകയും അത് ലഭിക്കുന്നതിന് എന്താണെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ പദം വലതുവശത്തേക്ക് മാറ്റിയതെന്ന് അറിയണം വിദ്യാർത്ഥി അതെ അതിനാൽ അറിയപ്പെടുന്നത് എവിടെ നിന്നാണ് വരുന്നത് ഞാൻ അനുമാനിച്ച രൂപത്തിൽ നിന്നല്ല മറിച്ച് അതിർത്തി അവസ്ഥയിൽ നിന്നാണ് അതിനാൽ എന്റെ അതിർത്തി വ്യവസ്ഥ എന്താണ് നമുക്ക് അതിലേക്ക് മടങ്ങാം അതിർത്തി വ്യവസ്ഥ ശരിയാണ് അതിനാൽ നമുക്ക് ഈ മുഴുവൻ പദത്തെയും കുറച്ച് ശരി എന്ന് വിളിക്കാം അതിനാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന് തുല്യമാണ് അല്ലാത്തപക്ഷം ഞാൻ അതിർത്തി വ്യവസ്ഥ ചുമത്തുന്നില്ല അതിനാൽ അതിർത്തിയിൽ 1 ആണ് അത് ആയിരിക്കും വിദ്യാർത്ഥി അപ്പോൾ എന്താണ് അതിനാൽ ബൌണ്ടറി പോയിന്റ് നോഡ് നമ്പർ 2 ഇത് സംഭാവനയില്ലാത്ത നോഡ് 2 ആണ് നോഡ് 1 അതെ നോഡ് 1 ൽ എന്താണ് ഉള്ളത് എന്നാൽ അതെന്താണ് വിദ്യാർത്ഥി ഒരു ഉപയോഗിച്ച് ഞാൻ ഇവിടെ പകരം വയ്ക്കണം ഇതൊരു എൻഡ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാൻ നോഡ് 1 ലെ മൂല്യം മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് കൂടാതെ ഞാൻ നോഡ് 1 ലെ മൂല്യം നിർവചിക്കുമ്പോൾ ഇത് ബൌണ്ടറി വ്യവസ്ഥയിൽ നിന്ന് വന്നതാണ് അപ്പോൾ തരംഗദൈർഘ്യമുള്ള ഫ്രീ എവിടെപ്പോയി ആ പാരാമീറ്ററുകളെല്ലാം എവിടെപ്പോയി വിദ്യാർത്ഥി അവിടെ നിന്ന് നേരെ ഇത് ആൽഫ വലത് ആവൃത്തിയിലും എല്ലാം നിരീക്ഷിക്കപ്പെടുന്നു അതിനാൽ സംഭവങ്ങളുടെ ആവൃത്തി ഈ സമവാക്യത്തിൽ എവിടെയോ ദൃശ്യമാകുന്നു അതിനാൽ ഇത് പോയിട്ടില്ല അതിനാൽ ഇത് നോഡ് 1 ൽ നിന്ന് വന്നത് ഞാൻ ഇവിടെ എഴുതിയ ഈ സമവാക്യം എനിക്ക് അത് പരിഹരിക്കാൻ കഴിയുമോ അതായത് എനിക്ക് ഇത് ലളിതമാക്കാൻ കഴിയുമോ അവകാശമില്ല അതിനാൽ ഇത് ഒരു സ്ഥിരമാണ് അവിടെ a ഉം a ഉം ഉണ്ട് dx ന് മുകളിൽ ഒരു സംയോജിത അതിനാൽ സെഗ്മെന്റിന്റെ നീളം മാത്രം വരും രണ്ടാം ടേമിനെക്കുറിച്ച് അതിനാൽ ഇത് ഏത് തരത്തിലുള്ള പോളിനോമിയലാണ് എന്നതിലും ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് സ്ഥിരമായ രേഖീയ ക്വാഡ്രാറ്റിക് ആണോ വിദ്യാർത്ഥി ക്വാഡ്രാറ്റിക് ചതുരാകൃതിയിലുള്ള വലത് രേഖീയവും രേഖീയവുമാണ് അതിനാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ് എന്താണ് ഏതൊക്കെ വേരിയബിളുകൾ മറ്റെന്തെങ്കിലും ഒരു വേരിയബിൾ k ആണ് k എന്നത് x വലത്തിന്റെ ഒരു ഫംഗ്ഷനാണ് അതിനാൽ എന്റെ വിവേചനാധികാരം മതിയായതാണെങ്കിൽ അതിനുള്ളിൽ കെ ഏകദേശം സ്ഥിരമായിരിക്കുമെന്ന് എനിക്ക് അനുമാനിക്കാം അതിനാൽ പോയിന്റ് പീസ്വൈസ് സ്ഥിരമായ ഏകദേശ കണക്ക് എനിക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ കെ കൂടുതൽ സങ്കീർണ്ണമായ എന്തെങ്കിലും ആണെങ്കിൽ ഈ പദത്തിനായി ഞാൻ എന്തുചെയ്യും വിദ്യാർത്ഥി യു പൊതുവായ അവകാശത്തിൽ ഒരു ക്വാഡ്രേച്ചർ നിയമം ഉപയോഗിക്കുക അതിനാൽ ഇത് ക്വാഡ്രേച്ചർ വലത് ഫൈൻ ഉപയോഗിച്ച് വിലയിരുത്താം ഇവിടെ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് ഇടത് വശത്തേക്ക് തിരികെ കൊണ്ടുപോകും അതിനാൽ ഒരു ചെറിയ കാര്യമുണ്ട് ഒരു ചെറിയ കൃത്യതയില്ലായ്മയുണ്ട് അതിർത്തി വ്യവസ്ഥ വിലയിരുത്തുന്നതിൽ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഞാൻ ഊഹിച്ച കാര്യങ്ങൾ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ അവിടെ എനിക്ക് ഇത് കുറച്ച് ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇപ്പോൾ ഇത് മായ്ക്കാം ഈ 0 പദം ശരിയാണ് ഈ ആൽഫയ്ക്ക് നേരിയതാണ് പരിഷ്ക്കരണത്തിൽ നിന്ന് അൽപ്പം ആവശ്യമാണ് ശരി അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പരിഷ്ക്കരണത്തിലേക്ക് നോക്കാം അതിനാൽ ഇപ്പോൾ ഈ അതിർത്തി വ്യവസ്ഥ അവബോധം ശരിയായിരിക്കാം എന്നത് ഞാൻ മായ്ക്കട്ടെ അതിനാൽ ഇത് കൂട്ടിച്ചേർക്കുക എന്ന് നമുക്ക് പറയാം തിരമാല ഈ ദിശയിലേക്ക് പോകുന്നു ഈ ഘട്ടത്തിൽ ഞാൻ ഈ അതിർത്തി വ്യവസ്ഥ ചുമത്തുകയാണ് അതുപോലെ ഇടത് അതിർത്തിയിൽ ഒരേ കാര്യം സംഭവിക്കുന്നു ഇത് അടിച്ചേൽപ്പിക്കുന്നത് അതിർത്തി വ്യവസ്ഥയാണ് ഇപ്പോൾ ഈ അതിർത്തി വ്യവസ്ഥ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കാൻ അനുവദിക്കുന്ന എല്ലാത്തിനും ബാധകമാണ് അതിനാൽ ഇവിടെ മനുഷ്യനെപ്പോലെയുള്ള അതേ ആന്റിന പ്രശ്നം അതിനാൽ ഈ വ്യക്തി അയയ്ക്കുന്നു നമുക്ക് പറയാം സംഭവ ഫീൽഡ് നമുക്ക് ഇവിടെ വീണ്ടും വരയ്ക്കാം അതിനാൽ എന്റെ ആന്റിന ഇപ്പോൾ ഇവിടെയുണ്ട് അത് ചെയ്യുന്നത് ഇതുപോലെ ഫീൽഡിന് പുറത്തേക്ക് അയയ്ക്കുന്നതാണ് ചിലർ 1D യിൽ വരയ്ക്കാൻ ശ്രമിക്കുന്ന 1D പ്രശ്നം പറയാം എന്റെ ഒബ്ജക്റ്റ് ഇവിടെയുണ്ട് ഇവയാണ് എന്റെ സിമുലേഷൻ ഡൊമെയ്നിന്റെ 2 അതിരുകൾ എന്താണ് സംഭവിക്കുന്നത് ഈ തരംഗം ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ചിതറിക്കിടക്കുന്നതും ഇങ്ങോട്ട് പോകുന്നതും ശാരീരികമായി സംഭവിക്കുന്നത് ഇതാണ് ഈ സാങ്കൽപ്പിക അതിർത്തിയിൽ നിന്ന് ഈ ഘട്ടം പ്രതിഫലിക്കരുത് എന്നതായിരുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയ അതിർത്തി വ്യവസ്ഥയുടെ അവബോധം ഈ ഘട്ടത്തിൽ ആകെ ഫീൽഡ് എന്താണ് അവിടെ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു ചിതറിക്കിടക്കുന്ന ഫീൽഡ് ഉണ്ട് സംഭവ ഫീൽഡിന്റെ കുറച്ച് ഭാഗം അവ രണ്ടും ഔട്ട്ഗോയിംഗ് ആണ് അവ രണ്ടും വീണ്ടും പ്രതിഫലിക്കരുത് അതാണ് നമുക്ക് വേണ്ടത് അതിനാൽ ഇവിടെ അവർക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സംഭവ ഫീൽഡ് യഥാർത്ഥത്തിൽ ഔട്ട്ഗോയിംഗിൽ നിന്ന് വിപരീത ദിശയിലാണ് പോകുന്നത് ചിതറിക്കിടക്കുന്ന വയലാണ് സിമുലേഷൻ ഡൊമെയ്നിലേക്ക് തിരികെ വരാൻ ഞാൻ അനുവദിക്കാത്ത ഭാഗമാണ് ചിതറിക്കിടക്കുന്ന ഫീൽഡ് ശരിയായ സംഭവ ഫീൽഡ് എന്നത് ഒരു ഗണിത പദപ്രയോഗം നൽകിയത് ഞാൻ കാര്യമാക്കുന്നില്ല അതിനാൽ ഞാൻ പറയുന്ന ഈ അതിർത്തി വ്യവസ്ഥ അതിർത്തിയിൽ നിന്നുള്ള പ്രതിഫലനങ്ങളൊന്നും മൊത്തം ഫീൽഡിലേക്കോ ചിതറിക്കിടക്കുന്ന വയലിലേക്കോ പ്രയോഗിക്കേണ്ടതില്ലേ ചിതറിക്കിടക്കുന്ന ഫീൽഡ് ഞാൻ ഒബ്ജക്റ്റ് ഇല്ലാതാക്കി എന്ന് കരുതി വീണ്ടും പ്രതിഫലിക്കരുത് തുടർന്ന് സംഭവ ഫീൽഡ് അടിച്ചേൽപ്പിക്കാൻ അതിരുകളില്ല ഒന്നിൽ നിന്ന് പ്രവേശിക്കുകയും മറ്റൊന്നിൽ നിന്ന് പുറത്തുകടക്കുകയും ചെയ്യാം എന്നാൽ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എല്ലായ്പ്പോഴും പുറത്തേക്ക് പോകുന്നു ഒബ്ജക്റ്റ് പൂർണ്ണമാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു സിമുലേഷൻ ഡൊമെയ്നിനുള്ളിൽ അടങ്ങിയിരിക്കുന്നു വിദ്യാർത്ഥി ഏതാണ് നല്ലത് അത്രമാത്രം അപ്പോൾ എന്താണ് നല്ലത് വിദ്യാർത്ഥി ചിതറിക്കിടക്കുന്ന ഫീൽഡിന്റെ പേരുമാറ്റുക എന്നത് ഒരു ഔട്ട്ഗോയിംഗ് തന്നെയാണ് അതിനാൽ ഈ ചിതറിക്കിടക്കുന്ന ഫീൽഡ് ശരിയാണ് അതിനാൽ ഇവിടെ ഈ ചിതറിക്കിടക്കുന്ന ഫീൽഡ് ഔട്ട്ഗോയിംഗ് ഇവിടെ ഈ ചിതറിയ ഫീൽഡ് ഔട്ട്ഗോയിംഗ് ആണ് അതിനാൽ അതിർത്തി വ്യവസ്ഥ ചിതറിക്കിടക്കുന്ന ഫീൽഡ് ശ്രദ്ധിക്കണം മൊത്തം ഫീൽഡ് അല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത വേരിയബിളുകൾ ഏതൊക്കെയാണ് അവയുടെ ആകെ ഫീൽഡ് എന്താണ് അതിനാൽ മൊത്തം ഫീൽഡിലോ ചിതറിക്കിടക്കുന്ന ഫീൽഡിലോ നമ്മൾ അതിർത്തി വ്യവസ്ഥ ഏർപ്പെടുത്തണോ നമ്മൾ അത് U യിൽ അടിച്ചേൽപ്പിക്കരുത് ചിതറിക്കിടക്കുന്ന ഫീൽഡിൽ അത് അടിച്ചേൽപ്പിക്കണം അതിനാൽ ഇവിടെയുള്ള ഈ അതിർത്തി വ്യവസ്ഥ നമുക്ക് അനുവദിച്ചു ഈ E മൊത്തം ക്ഷമിക്കണം E ചിതറിപ്പോയി എന്ന് ഞാൻ എഴുതട്ടെ E ചിതറിക്കിടക്കുന്നത് ഇതിന് ആനുപാതികമാണ് ശരിയായ അതിർത്തി വ്യവസ്ഥയാണ് ഇതാണ് തരംഗം തിരിച്ചുവരാത്തതിനെ അനുകരിക്കുന്നത് അതിനാൽ യു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് എന്തായി എഴുതും അതിനാൽ E ചിതറിക്കിടക്കുന്നതിനാൽ E ടോട്ടൽ E ചിതറിയതും E സംഭവം ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ എന്റെ വേരിയബിൾ E ടോട്ടൽ ആയതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം അതിനാൽ E ചിതറിക്കിടക്കുന്നത് ശരിയായിരിക്കും അതിനാൽ ഇത് ശരിക്ക് തുല്യമാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് അതിർത്തി വ്യവസ്ഥ ഉപയോഗിക്കാം അതിനാൽ അതിർത്തി വ്യവസ്ഥ പറയുന്നു ഇത് ഒരു വിമാന തരംഗമാണെന്ന് നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ എനിക്ക് ഫങ്ഷണൽ ഫോം അറിയാവുന്ന മറ്റെന്തെങ്കിലും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ ഞാൻ ഇത് ഒരിക്കൽ കൂടി ലളിതമാക്കുമ്പോൾ ഒടുവിൽ എനിക്ക് എന്താണ് ലഭിക്കുന്നത് ഈ സമവാക്യത്തിൽ നോക്കൂ എനിക്ക് ശരി എന്ന ഒരു വ്യവസ്ഥ വേണമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് അതിനാൽ ഞാൻ ഇപ്പോൾ വിലയിരുത്തുന്ന വലതുഭാഗം ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം നോഡ് 2 ചെയ്തുകഴിഞ്ഞാൽ എനിക്ക് മുമ്പത്തെപ്പോലെ 0 നൽകുന്നു ഇവിടെയുള്ള നോഡ് 1 ഇതാണ് ഞാൻ ഇവിടെ ശരിയാക്കുന്നത് അതിനാൽ എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് ഒരു മൈനസ് കുറച്ച് ടേം ലഭിക്കും നമുക്ക് ഒരു മൈനസ് നൽകാം മൈനസ് ആ ടേം എന്തായിരിക്കും എന്നതിന് തുല്യമായി ചേരുന്നു അതിനാൽ നോഡ് 1 വലത് മൂല്യത്തിൽ ഈ പദം എന്താണ് എന്ന് വിലയിരുത്തുന്നു അതിനാൽ വിദ്യാർത്ഥി സംഭവത്തിന്റെ ഡെറിവേറ്റീവ് ശരിയാണ് വിദ്യാർത്ഥി അതിനാൽ ഞാൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതെ സംഭവ ഫീൽഡ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ഞങ്ങൾ അത് അനുമാനിക്കും വിദ്യാർത്ഥി കൊള്ളാം പക്ഷേ ഡെറിവേറ്റീവിന്റെ കാര്യമോ അതും അങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ കണക്കാക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കരുതുന്നത് വിമാനത്തിന്റെ തരംഗമാണ് വിദ്യാർത്ഥി കാര്യങ്ങളുണ്ട് ഇല്ല ഞങ്ങൾക്ക് ഫംഗ്ഷണൽ രൂപത്തിൽ നൽകിയ സംഭവ ഫീൽഡ് ഞങ്ങൾ കണക്കാക്കുന്നില്ല ഉദാഹരണത്തിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സങ്കീർണ്ണമായ ഫംഗ്ഷൻ ആകാം കാരണം അത് പ്രശ്നത്തിൽ നൽകിയിരിക്കുന്നത് പോലെയാണ് നിലവിലെ ഉറവിടം നൽകിയിരിക്കുന്നത് ഏത് ഫീൽഡിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങൾക്ക് നൽകിയ വസ്തുവിന്റെ അഭാവം നല്ലതാണ്